നമസ്കാരം നമ്മൾ ഈ കോഴ്സിന്റെ രണ്ടാം ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്നു ഈ ആഴ്ചയിൽ വിവിധ ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളുടെ മെഷ് നോഡൽ വിശകലനം മനസിലാക്കാൻ നമ്മൾ ശ്രമിക്കും ആർഎംഎസ് വോൾട്ടേജിനെക്കുറിച്ചും കറണ്ട് ൻറെ മൂല്യം ഈ മൂല്യങ്ങൾ എങ്ങനെ നേടാം എന്നതിനെക്കുറിച്ചും ഇന്ന് പ്രത്യേകമായി ചർച്ച ചെയ്യും ഒരു പ്രത്യേക സർക്യൂട്ടിന്റെ പവർ ഔട്ട്പുട്ട് കണ്ടെത്തുന്നതിന് നമുക്ക് എങ്ങനെ ആർഎംഎസ് മൂല്യങ്ങൾ ഉപയോഗിക്കാം എന്നും നമ്മൾ കാണും അതിനാൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും ഓർക്കാം ചാർജ് എന്ന അടിസ്ഥാന ആശയങ്ങളുമായി നമ്മൾ ആരംഭിച്ചു തുടർന്ന് നമ്മൾ കറണ്ട് വോൾട്ടേജ് പവർ ഊർജ്ജം എന്നിവയെക്കുറിച്ച് സംസാരിച്ചു സജീവവും നിഷ്ക്രിയവുമായ സർക്യൂട്ട് ഘടകങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ചചെയ്തു അവിടെ വോൾട്ടേജിനെക്കുറിച്ചും കറണ്ട് ഉറവിടങ്ങളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തു ഡിപെൻഡൻറ് ഉം ഇൻഡിപെൻഡൻറ് ഉം ആയ വോൾടേജ്ൻറെഉം കറണ്ട്ൻറെ ഉം ഉറവിടങ്ങളുടെയും വിവിധ ചിഹ്നങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മൾ കണ്ടു സൈനസോയിഡിനെക്കുറിച്ചും ഫേസറിനെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തു നൽകിയ സിനുസോയിഡിന്റെ സഹായത്തോടെ ഫേസറിന്റെ മൂല്യം എങ്ങനെ കണ്ടെത്താം നമ്മൾ കണ്ടു റെസിസ്റ്റൻസ് ഇൻഡക്റ്റൻസ് കപ്പാസിറ്റൻസ് എന്നിങ്ങനെയുള്ള സർക്യൂട്ട് ഘടകങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു ഒരു നിശ്ചിത ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ വിവിധ കറന്റ് വോൾട്ടേജ് മൂല്യങ്ങൾ കണക്കാക്കുന്നതിനുള്ള വളരെ അടിസ്ഥാനപരവും പ്രധാനപ്പെട്ടതുമായ ചില നിയമങ്ങളും കിർചോഫ്kirchhoff's law നിയമവും നമ്മൾചർച്ചചെയ്തു അതിനാൽ മിക്കപ്പോഴും നമ്മൾ ഓംസ് ohm's law നിയമം അല്ലെങ്കിൽ കിർചോഫ് വോൾട്ടേജ് അല്ലെങ്കിൽ കറന്റ് നിയമം ഉപയോഗിക്കുന്നു സർക്യൂട്ട് വിശകലനത്തിനായി റെസിസ്റ്റർ കപ്പാസിറ്റർ ഇൻഡക്റ്റർ എന്നിവയ്ക്കുള്ള സീരീസ് സമാന്തര സർക്യൂട്ടുകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു കറന്റ് വോൾട്ടേജ് ഡിവിഷനെക്കുറിച്ചും തുടർന്ന് ഇൻഡക്റ്ററിനും കപ്പാസിറ്ററിനുമുള്ള വോൾട്ടേജ് കറന്റ് ഫേസ് ബന്ധങ്ങളും നമ്മൾ ചർച്ച ചെയ്തു തുടർന്ന് തൽക്ഷണ ഉർജ്ജത്തിന്റെയും ശരാശരി ഉർജ്ജത്തിന്റെയും കണക്കുകൂട്ടലും നമ്മൾ പഠിച്ചു അതിനാൽ ഇന്ന് നമ്മൾ റൂട്ട് മീഡിയൻ സ്ക്വയർ വോൾട്ടേജ്root mean square voltage current കറന്റ് എന്ന ആശയം ചർച്ച ചെയ്യും അതിനെ ഇഫക്ടിവ് വോൾട്ടേജ് അല്ലെങ്കിൽ കറന്റ് എന്നും വിളിക്കുന്നു ഒരു റെസിസ്റ്റീവ് ലോഡിലേക്ക് വൈദ്യുതി എത്തിക്കുന്നതിൽ ഒരു സിനുസോയ്ഡൽ വോൾട്ടേജിന്റെയോ കറന്റ് ഉറവിടത്തിന്റെയോ ഫലപ്രാപ്തി അളക്കേണ്ടതിന്റെ ആവശ്യകതയിൽ നിന്നാണ് ഇപ്പോൾ ഇഫക്ടിവ് മൂല്യത്തിന്റെ ആശയം ഉണ്ടാകുന്നത് ഇഫക്ടിവ് മൂല്യം എന്നാൽ പീരിയോഡിക് വൈദ്യുതധാരയുടെ അതേ ശരാശരി പവർ റെസിസ്റ്ററിന് നൽകുന്ന ഡിസി ഉറവിടത്തിന് തുല്യമായ ഒരു പീരിയോഡിക് വൈദ്യുതധാരയുടെ മൂല്യം എന്നാണ് അർത്ഥമാക്കുന്നത് വൈദ്യുതധാരയുടെ ഇഫക്ടിവ് മൂല്യം കണ്ടെത്തുന്നതിന് ആ ഘടകം ഒരു എസി ഉറവിടവുമായും ഡിസി ഉറവിടവുമായും ബന്ധിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉർജ്ജ വിസർജ്ജന ശക്തിയുമായി തുലനപ്പെടുത്തണം എന്നാണ് ഇതിനർത്ഥം അതിനാൽ ഈ പ്രത്യേക സർക്യൂട്ടിനെ എസി ഉറവിടത്തിലേക്കും ഡിസി ഉറവിടത്തിലേക്കും ബന്ധിപ്പിക്കുമ്പോൾ രണ്ട് കേസുകളിലും പവർ തുല്യമായിരിക്കണം അതിനാൽ എസി ഡിസി എന്നിവയുമായി ബന്ധിപ്പിക്കുമ്പോൾ ഘടകം ഉപയോഗിക്കുന്ന വൈദ്യുതിയെ തുലനപ്പെടുത്തി ഫലപ്രദമായ വൈദ്യുതധാരയുടെ മൂല്യം എന്തായിരിക്കണമെന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യും അതുപോലെ നിങ്ങൾ എസി വോൾട്ടേജ് സ്രോതസ്സുമായി ബന്ധിപ്പിച്ചാൽ ആ പ്രത്യേക ഘടകം വൈദ്യുതി എങ്ങനെ ഡിസിപേറ്റ് ചെയ്യും മാത്രമല്ല ഡിസി എസി എന്നിവയ്ക്കുള്ള പവർ തുല്യമാക്കുമ്പോൾ ഫലപ്രദമായ വോൾട്ടേജിന്റെ മൂല്യം നമുക്ക് ലഭിക്കുമെന്നും പറയാൻ കഴിയും നമ്മൾ ആ ആശയം ഉപയോഗിക്കുകയും ഫലപ്രദമായ വോൾട്ടേജിന്റെയും വൈദ്യുതധാരയുടെയും മൂല്യം എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കും ഇപ്പോൾ ശരാശരി പവർ നിർവചനത്തിൽ നിന്ന് ആരംഭിക്കാം

നിങ്ങൾ ഒരു പ്രത്യേക ഘടകം എടുക്കുന്നുവെന്ന് കരുതുക നമുക്ക് റെസിസ്റ്റർ എടുക്കാം അത് ഒരു എസി ഉറവിടത്തിലേക്കും ഒരു ഡിസി ഉറവിടത്തിലേക്കും ഒരു സ്വിച്ച് ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് എസിക്കും ഡിസിക്കും ഇടയിൽ ആ സ്വിച്ച് ടോഗിൾ ചെയ്യാൻ കഴിയും അതിനാൽ ആദ്യം നിങ്ങൾ എസി ഉറവിടത്തിലേക്ക് കണക്റ്റുചെയ്യുകയാണെങ്കിൽ ശരാശരി പവർ എന്തായിരിക്കും മുകളിലുള്ള സമവാക്യം ഉപയോഗിച്ച് ശരാശരി പവർ നമ്മുക് ലഭിക്കും ഇപ്പോൾ എസിക്ക് പകരം നിങ്ങൾ ആ ഘടകത്തെ ഡിസിയുമായി ബന്ധിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരാശരി ശക്തിയുടെ മറ്റൊരു മൂല്യം ലഭിക്കും അത് ഒരു പ്രത്യേകഘടകത്താൽ ആഗിരണം ചെയ്യപ്പെടും ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് റെസിസ്റ്റർ ഉണ്ട് പക്ഷേ ഉറവിടം ഡിസിയാണ് അതിനാൽ കുറച്ച് വൈദ്യുതി റെസിസ്റ്റർ ഡിസിപേറ്റ് ചെയ്യും

ഇപ്പോൾ നിർവചനം അനുസരിച്ച് വൈദ്യുതധാരയുടെ ഫലപ്രദമായ മൂല്യം കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ഇതിനർത്ഥം ഡിസി കറന്റ് ഒഴുകുമ്പോഴും എസി കറന്റ് ഒഴുകുമ്പോഴും ഊർജ്ജ മൂല്യം തുലനപ്പെടുത്തണം എന്നാണ് അതിനാൽ ആ സാഹചര്യത്തിൽ നമുക്ക് എന്ത് പറയാൻ കഴിയും നമുക്ക് P എന്നാൽ ഇപ്പോൾ ഗണിതശാസ്ത്ര പ്രവർത്തനങ്ങൾ ഉപയോഗിച്ച് ഈ പ്രത്യേക സമവാക്യംനിങ്ങൾക്ക് ലളിതമായി പറയാൻ കഴിയും അതിനാൽ കറണ്ടിന്റെ മൂല്യമാണ് ഇത് റൂട്ട് മീൻ സ്ക്വയർ മൂല്യമല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ എന്നത് സ്ക്വയർ മൂല്യമാണ് അതിനാൽ നിങ്ങൾ ഇന്റഗ്രൽ എടുക്കുന്നു എന്നാൽ എല്ലാ ഘടകങ്ങളുടെയും സംഗ്രഹം എടുക്കുകയും തുടർന്ന് നിങ്ങൾ ശരാശരി എടുക്കുകയും ഈ പ്രത്യേക സമവാക്യത്തിന്റെ പൂർണ്ണ ഔട്ട്പുട്ട്ട്ടിന്റെ റൂട്ട് എടുക്കുകയും ചെയ്യുന്നു അതിനാൽ കറണ്ടിന്റെ റൂട്ട് മീൻ സ്ക്വയർ മൂല്യമാണെന്നു നമ്മുക് പറയാൻ കഴിയും അതുപോലെ വോൾട്ടേജിന്റെ എഫക്റ്റീവ് മൂല്യവും എഴുതാം നമ്മൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ കറന്റ് i മാറ്റിസ്ഥാപിക്കണം അതിനാൽ v ന്റെ മൂല്യം i യുടെ അടിസ്ഥാനത്തിൽ എഴുതുന്നതിനുപകരം i യുടെ മൂല്യം v ന്റെ അടിസ്ഥാനത്തിൽ എഴുതുകയും നിങ്ങൾക്ക് ഈ സമവാക്യം ലഭിക്കുകയും ചെയ്യും അതിനാൽ നമ്മുക് പറയാൻ കഴിയും സിനുസോയിഡ് നമുക്കറിയാം ഇപ്പോൾ നിങ്ങൾ v യുടെ ഈ മൂല്യം ഇടുകയാണെങ്കിൽ ഇത് തൽക്ഷണ വോൾട്ടേജായതിനാൽ ഇത് സിനുസോയിഡ് രൂപത്തിൽ പ്രതിനിധീകരിക്കുന്നു അതിനാൽ നിങ്ങൾക് എഴുതാം ഇപ്പോൾ നിങ്ങൾ ഈ പ്രത്യേക പദം കണ്ടാൽ ഇത് മറ്റൊന്നുമല്ലനമ്മൾ ചർച്ച ചെയ്ത കാര്യം ഓർക്കുന്നുവെങ്കിൽ ആണെങ്കിൽ ഇത് ആയി മാറും അത് ഇപ്പോൾ നിങ്ങൾ പുനർക്രമീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കും അതിനാൽ ഇപ്പോൾ നേടിയ ഈ മൂല്യം നമ്മുക് ഇതിലേക്ക് ഇടാം ഇപ്പോൾ ഈ പ്രത്യേക പദപ്രയോഗം കണ്ടാൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കും ഇത് ഒരു സിനുസോയിഡായി വ്യത്യാസപ്പെടുന്ന പദമായതിനാൽ 0 മുതൽ ടി വരെയുള്ള ഒരു പ്രത്യേക കാലയളവിലെ ഈ പദത്തിന്റെ മൂല്യം 0 ആയിത്തീരും അതിനാൽ ഒടുവിൽ ഈ പദം 1 മാത്രമാണ് അവശേഷിപ്പിക്കുന്നത് അതിനാൽ ഈ സ്ഥിരമായ പദം dt യുമായി ഇന്റഗ്രേറ്റ് ചെയ്ത് നിങ്ങൾ ലളിതമാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് ആയി ലഭിക്കും അത് വോൾട്ടേജിന്റെ ആർ എം എസ് മൂല്യമാണ് എന്തുകൊണ്ടാണ് ഇത് ആർ എം എസ് കാരണം പ്രാരംഭ കൺവെൻഷനിൽ നിന്ന് ഈ പ്രത്യേക മൂല്യം റൂട്ട് മീൻ സ്ക്വയർ അല്ലാതെ മറ്റൊന്നുമല്ലെന്ന് കണ്ടു അതിനാൽ ഇവിടെ സ്ക്വയർ മൂല്യം സംഗ്രഹിച്ച് ശരാശരി എടുത്ത് പദത്തിന്റെ റൂട്ട് എടുക്കുന്നു അതിനാൽ ഇത് റൂട്ട് മീൻ സ്ക്വയർ മൂല്യമായി മാറും അതായത് ആവർത്തന സിഗ്നലിന്റെ സ്ക്വയറിന്റെ ശരാശരി സ്ക്വയർ റൂട്ട് ഈ സാഹചര്യത്തിൽ ഈ പീരിയോഡിക് സിഗ്നൽ V ആണ് അതിനാൽ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന ഔട്ട്പുട്ട് Vrms ആണ് ഈ മൂല്യം ന് തുല്യവും Vm സിഗ്നലിന്റെ പീക്ക് മൂല്യവുമാണ് അതുപോലെ നിങ്ങൾ കറന്റ് എടുക്കുകയും അത് സിനുസോയിഡിന്റെ അടിസ്ഥാനത്തിൽ പ്രതിനിധീകരിക്കുകയും ചെയ്താൽ നമുക്ക് വൈദ്യുതധാരയുടെ rms മൂല്യം ലഭിക്കും അതായത് Irms ഇപ്പോൾ നിങ്ങൾ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ പ്രത്യേക മൂല്യം സിനുസോയ്ഡൽ സിഗ്നലുകൾക്ക് മാത്രമേ ബാധകമാകൂ നിങ്ങൾക്ക് സിനുസോയ്ഡ് സിഗ്നൽ ഇല്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഇന്റഗ്രലിൽ നിന്ന് കണക്കുകൂട്ടുകയും തുടർന്ന് rms മൂല്യം കണ്ടെത്തുന്നതിനായി നമ്മൾ ഉപയോഗിച്ച യഥാർത്ഥ ഫംഗ്ഷന്റെ സഹായത്തോടെ പൂർണ്ണമായ ആർ എം എസ് മൂല്യം കണക്കാക്കുകയും വേണം എന്നാണ് അതിനാൽ മുൻ പ്രഭാഷണങ്ങളിൽ നിന്ന് സിനുസോയ്ഡൽ ഉത്തേജനം ഉപയോഗിക്കുന്ന ഒരു സർക്യൂട്ട് ആഗിരണം ചെയ്യുന്ന ശരാശരി ശക്തിയെ ഇപ്രകാരം ഓർമിക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെ ആർ എം എസ് മൂല്യങ്ങളുടെ രൂപത്തിൽ പ്രതിനിധീകരിക്കാം

ഇപ്പോൾ ഇത് ആർ എം എസ് മൂല്യമാണ് അതുപോലെ തന്നെ നമ്മൾ കണ്ട ആർ എം എസ് കറന്റാണ് അതിനാൽ ശരാശരി പവർ നിങ്ങൾക്ക് എന്ന് എഴുതാം ഇപ്പോൾ ഇതാണ് പൊതുവായ പദപ്രയോഗം സർക്യൂട്ട് ഘടകം പൂർണ്ണമായും റെസിസ്റ്റീവ് ആണെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ കറന്റ് ഉം വോൾട്ടേജും ഫേസർ ഒരേ ഫേസ് ഇൽ ആയിരിക്കും അതിനാൽ ഒടുവിൽ റെസിസ്റ്റർ ആഗിരണം ചെയ്യുന്ന ശരാശരി പവർ അതിനാൽ സിനുസോയ്ഡൽ വോൾട്ടേജ് അല്ലെങ്കിൽ കറന്റ് വ്യക്തമാക്കുമ്പോൾ അതിന്റെ പരമാവധി മൂല്യം അല്ലെങ്കിൽ ആർഎംഎസ് മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് പലപ്പോഴും വ്യക്തമാക്കുന്നു കാരണം അതിന്റെ ശരാശരി മൂല്യം എല്ലായ്പ്പോഴും 0 ആയിരിക്കും ഒരു സിനുസോയ്ഡൽ ആയതിനാൽ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും വോൾട്ടേജിന്റെയോ വൈദ്യുതധാരയുടെയോ ശരാശരി മൂല്യം 0 ആയി ലഭിക്കും അതിനാൽത്തന്നെ വോൾട്ടേജിന്റെയും കറന്റിന്റെയും മൂല്യം ശരാശരി മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിലനിർത്തുന്നത് ഉചിതമല്ല അതിനാലാണ് നിങ്ങൾ എല്ലായ്പ്പോഴും വോൾട്ടേജിന്റെ കറന്റ് ഇന്റെയോ മൂല്യം പരമാവധി അല്ലെങ്കിൽ ആർഎംഎസ് മൂല്യമായി കണക്കാക്കുന്നത് എന്നാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഊർജ്ജ വ്യവസായങ്ങളിൽ പീക്ക് മൂല്യങ്ങളേക്കാൾ അവയുടെ ആർഎംഎസ് മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും ഫേസർ മാഗ്നിറ്റ്യൂഡ് വ്യക്തമാക്കുക അതിനാലാണ് ആർഎംഎസ് പദം വളരെ സാധാരണമായത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലോ പവർ സിസ്റ്റം ഏരിയയിലോ ഉള്ള വിവിധ വോൾട്ടേജുകളെക്കുറിച്ചും നിലവിലെ സിഗ്നലുകളെക്കുറിച്ചും സംസാരിക്കുമ്പോൾ മിക്കവാറും എല്ലാ പൊതു സമവാക്യങ്ങളിലും ഇത് ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് ഓരോ വീട്ടിലേക്കും വരുന്ന 230 വോൾട്ടുകൾ കണ്ടാൽ ഇത് ആർഎംഎസ് മൂല്യമാണ് പീക്ക് മൂല്യമല്ല അതിനാൽ നിങ്ങളുടെ വീട്ടിലെ വോൾട്ടേജ് 230 വോൾട്ട് ആണെന്ന് നിങ്ങൾ പറയുമ്പോഴെല്ലാം ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ സംസാരിക്കുന്നത് ആർഎംഎസ് മൂല്യത്തെ കുറിച്ചാണ് പീക്ക് മൂല്യം അല്ല ആർഎംഎസ് മൂല്യത്തിൽ വോൾട്ടേജും കറന്റും പ്രകടിപ്പിക്കുന്നത് പവർ വിശകലനത്തിൽ സൌകര്യപ്രദമാണ് കാരണം കണക്കുകൂട്ടലുകൾ നടത്തുന്നത് കൂടുതൽ സൌകര്യപ്രദമാണ് കൂടാതെ ആർഎംഎസ് മൂല്യം ഉപയോഗിക്കുമ്പോൾ ചർച്ച ചെയ്ത പവർ കണക്കുകൂട്ടലുകളും എളുപ്പമാണ് നിങ്ങളുടെ മറ്റ് അളക്കൽ ഉപകരണങ്ങളായ വോൾട്ട്മീറ്റർ അമ്മീറ്റർ എന്നിവ ആർഎംഎസ് മൂല്യം നേരിട്ട് വായിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു അതിനാലാണ് നമ്മുടെ സർക്യൂട്ട് വിശകലനത്തിന് ആർഎംഎസ് മൂല്യം വളരെ പ്രധാനമായത് ഇപ്പോൾ നമുക്ക് ഒരു ഉദാഹരണം നോക്കാം അതുവഴി നിങ്ങൾക്ക് പ്രതിഭാസങ്ങൾ മനസ്സിലാക്കാൻ കഴിയും ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ചില വോൾട്ടേജ് ഉണ്ടെന്ന് വിചാരിക്കുക ഇത് ഇത് ഹാഫ് വേവ് റെക്ടിഫൈഡ് ആണ് അതായത് നെഗറ്റീവ് മൂല്യം ഇല്ലെന്നും 10 ഓംസ് റെസിസ്റ്ററിൽ ശരാശരി വൈദ്യുതി കണ്ടെത്താനും നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഈ കണക്ക് കണ്ടാൽ ഈ പ്രത്യേക തരംഗരൂപത്തിന്റെ സമയപരിധി 2π ആണെന്നും വോൾട്ടേജ് എന്നാൽ അപ്പോൾ നിങ്ങൾ എങ്ങനെ ആർഎംഎസ് മൂല്യം കണക്കാക്കും ഇത് ശുദ്ധമായ ഒരു സിനുസോയ്ഡൽ അല്ലാത്തതിനാൽ നിങ്ങൾക്ക് നേരിട്ട് Vrmsഉപയോഗിക്കാൻ സാധിക്കില്ല അതിനാൽ റൂട്ട് മീൻ സ്ക്വയർന്റെ സ്റ്റാൻഡേർഡ് നിർവചനത്തിന്റെ സഹായത്തോടെ മാത്രമേ നിങ്ങൾക് അത് കണ്ടു പിടിക്കാൻ സാധിക്കുക ഉള്ളു അതിനാൽ അതിനാൽ നിങ്ങൾ കണക്കാക്കുമ്പോൾ ഈ പദപ്രയോഗം ലളിതമാക്കുക നിങ്ങൾക്ക് വോൾട്ടേജിന്റെ ആർഎംഎസ് മൂല്യം 5 വോൾട്ടായി ലഭിക്കും അതിനാൽ റെസിസ്റ്റർ ആഗിരണം ചെയ്യുന്ന ശരാശരി പവർ പി എന്നത് R ആണെന്ന് നിങ്ങൾക് പറയാൻ കഴിയും അതിനാൽ ഇവിടെ ആർഎംഎസ് മൂല്യം 5 വോൾട്ട് ആണ് അതിനാൽ 25 ആണ് റെസിസ്റ്റർ മൂല്യം 10 അതിനാൽ ഔട്ട്പുട്ട് 2 5 വാട്ട് ആയിരിക്കും ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന സിഗ്നൽ ഇതുപോലെയാണെന്ന് കരുതുക 0 മുതൽ 2 വരെ ഇത് സാധാരണ തരംഗവും 2 മുതൽ 4 വരെ ചതുര തരംഗവുമാണ് അതിനാൽ തരംഗരൂപത്തിന്റെ പീരീഡ് 4 ആണ് നമ്മൾ കറന്റ്നെ കുറിച്ച സംസാരിക്കുന്നത് കാരണം തരംഗരൂപത്തെ ഇങ്ങനെ നിർവചിക്കാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഇന്റഗ്രൽ ലളിതമാക്കുമ്പോൾ Irms ന്റെ ഔട്ട്പുട്ട് 8 165 ആമ്പിയറായി ലഭിക്കും അതിനാൽ ഈ കറന്റ് ലഭിക്കുമ്പോൾ ശരാശരി പവർ P എന്നാൽ R ആണ് കൂടാതെ റെസിസ്റ്ററിനാൽ ആഗിരണം ചെയ്യപ്പെടുന്ന പവർ നിങ്ങൾക്ക് 133 3 വാട്ട് എന്ന് ലഭിക്കും ഇപ്പോൾ അപ്പാരന്റ് പവർ പവർ ഫാക്ടർ എന്ന് വിളിക്കുന്ന മറ്റൊരു പദത്തെക്കുറിച്ച് സംസാരിക്കാം അതിനാൽ നേരത്തെ ഉരുത്തിരിഞ്ഞത് സർക്യൂട്ട് ആഗിരണം ചെയ്യുന്ന ശരാശരി ശക്തിയാണ് ഇത് ഒരു സിനുസോയ്ഡൽ സിഗ്നൽ ഉപയോഗിച്ച് ഉത്തേജിപ്പിക്കുകയും അവ ആർഎംഎസ് വോൾട്ടേജിന്റെയും വൈദ്യുതധാരയുടെയും രൂപത്തിൽ പ്രകടിപ്പിക്കുകയും ചെയ്തു അതിനാൽ ശക്തി അതിനാൽ നിങ്ങൾക്ക് എന്തുചെയ്യാൻ കഴിയും മുകളിലുള്ള പദപ്രയോഗം നിങ്ങൾക്ക് തിരുത്തിയെഴുതാം എന്താണ് എസ് S അപ്പാരന്റ് പവർ എന്ന് വിളിക്കുന്നു കാരണം ഇത് ആർഎംഎസ് വോൾട്ടേജിന്റെയും വൈദ്യുതധാരയുടെയും ഗുണനമായി നിർവചിക്കപ്പെടുന്നു അതിനാൽ നിങ്ങൾ ഡിസി വോൾട്ടേജ് സോഴ്സ് പവറുമായി ബന്ധപ്പെടുത്തുവാനെങ്കിൽ ഡിസിയിൽ പവറിനെ v i എന്ന് നിർവചിക്കുന്നു അതിനാൽ അപ്പാരന്റ് പവർ Irms Vrms ആയിരിക്കും അതിനാൽ നിങ്ങൾക്ക് ഡിസി ഉറവിടവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് അപ്പാരന്റ് ആണ് എന്ന് ഒരു തോന്നൽ ലഭിക്കും അതിനാൽ ഇത് അപ്പാരന്റ് പവർ ആണ് കാരണം പവർ ഡിസി റെസിസ്റ്റീവ് സർക്യൂട്ടുമായി സാമ്യമുള്ള വോൾട്ടേജ് കറന്റ് ഗുണമാണ് എന്ന് തോന്നും ഇപ്പോൾ അപ്പാരന്റ പവർ വോൾട്ട് ആമ്പിയറിൽ അളക്കുന്നത് അതിനെ റിയൽ പവറിൽ നിന്ന് വേർതിരിച്ചറിയാൻ വേണ്ടിയാണ് കാരണം റിയൽ പവർ വാട്ട് കൊണ്ട് അളക്കുന്നു അതിനാൽ അപ്പാരന്റ് പവറും റിയൽ പവറും തമ്മിൽ വേർതിരിച്ചറിയാൻ വോൾട്ട് ആമ്പിയർ അപ്പാരന്റ് ഊർജത്തിന്റെ അളവായും വാട്ട് റിയൽ പവർ ഇന്റെ അളവായും ഉപയോഗിക്കുന്നു റിയൽ അല്ലെങ്കിൽ ശരാശരി പവർ കണക്കുകൂട്ടാൻ അപ്പാരന്റ് പവറിനെ ഒരു ഘടകം കൊണ്ട് ഗുണിക്കേണ്ടതുണ്ടെന്ന് മുമ്പത്തെ പദപ്രയോഗത്തിൽ നിന്ന് നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ കഴിയും അപ്പോൾ എന്താണ് പദം ആ പദം എന്നായിരുന്നു അതിനാൽ ഇപ്പോൾ ഈ പവർ ഫാക്ടർ 0 മുതൽ 1 വരെയാണ് അതിനാൽ നിങ്ങൾക്ക് പൂർണ്ണമായും റെസിസ്റ്റീവ് ലോഡ് ഉണ്ടെങ്കിൽ വോൾട്ടേജും കറന്റും ഒരേ ഫേസ് ഇൽ ആയിരിക്കും അതിനാൽ ആയിരിക്കും അതിനാൽ എന്ത് സംഭവിക്കും അത്തരം സന്ദർഭങ്ങളിൽ ആയിരിക്കും മൂല്യം അതിനാൽ പവർ ഫാക്ടർ 1 ആയിരിക്കും അതിനാൽ ഇത് സൂചിപ്പിക്കുന്നത് ഈ സാഹചര്യത്തിൽ അപ്പാരന്റ പവർ ശരാശരി പവറിനു തുല്യമാണെന്ന് ഡിഗ്രി ആയിരിക്കുമ്പോൾ പൂർണ്ണമായും റിയാക്ടീവ് ലോഡ് ഉണ്ടെങ്കിൽ അത് ഇൻഡക്റ്റീവ് ലോഡ് അല്ലെങ്കിൽ കപ്പാസിറ്റീവ് ലോഡ് ആകാം പവർ ഫാക്ടർ 0 ആയിരിക്കും അതിനാൽ ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ ശരാശരി പവർ 0 ആയിരിക്കും അതിനാൽ ഇവ 2 തീവ്ര കേസുകളാണ് ഏത് പവർ ഫാക്ടറാണ് ലീഡ് ചെയുന്നത് എന്നോ ലാഗ് ചെയുന്നത് എന്നോ പറയപ്പെടുന്നു ലീഡിംഗ് പവർ ഫാക്ടർ എന്നതിനർത്ഥം കറന്റ് വോൾടേജ് ഇനെ ലീഡ് ചെയ്യുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത് കപ്പാസിറ്റീവ് ലോഡിനെ സൂചിപ്പിക്കുന്നുവെന്നും ആണ് അതിനർത്ഥം പവർ ഫാക്ടർ ലാഗ് ചെയ്യുവാനെങ്കിൽ അതിന് കറന്റ് വോൾടേജ് ഇനെ ലാഗ് ചെയ്യുന്നു എന്നാണ് ഇത് ഒരു ഇൻഡക്റ്റീവ് ലോഡിനെ സൂചിപ്പിക്കുന്നുവെന്നും ആണ് അതിനാൽ നിങ്ങളുടെ സർക്യൂട്ട് വിശകലനത്തിൽ ഈ പ്രത്യേക വശം നിങ്ങൾ തുടരും കാരണം സർക്യൂട്ട് റെസിസ്റ്റർ കപ്പാസിറ്റർ ഇൻഡക്റ്റർ എന്നിവ ഉൾക്കൊള്ളുന്നു അതിനാൽ എല്ലാ ഘടകങ്ങളും ഉണ്ടാകും അതിനാൽ വോൾട്ടേജുമായി ബന്ധപ്പെട്ട് കറന്റ് ലീഡ് ചെയ്യുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ അതിനർത്ഥം സർക്യൂട്ട് കപ്പാസിറ്റീവ് എന്നാണ് അല്ലെങ്കിൽ കറന്റ് വോൾട്ടേജുമായി ബന്ധപ്പെട്ട് ലാഗ് ചെയ്യുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ അതിനർത്ഥം സർക്യൂട്ട് ഇൻഡക്റ്റീവ് ആണെന്ന് അതിനാൽ നിങ്ങൾക്ക് ഒരു കപ്പാസിറ്റീവ് സർക്യൂട്ട് ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഒരു ലാഗിങ് പവർ ഫാക്ടർ ഉണ്ടാകും ഇൻഡക്റ്റീവ് സർക്യൂട്ട് ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഒരു ലീഡിങ് പവർ ഫാക്ടർ ഉണ്ടാകും ഇപ്പോൾ നമുക്ക് ഒരു ഉദാഹരണം നോക്കാം ഒരു സീരീസ് കണക്റ്റുചെയ്ത ലോഡ് ഈ എക്സ്പ്രഷൻ നൽകിയ കറന്റ് ഉപയോഗിക്കുന്നു എന്ന് കരുതുക ഒരു വോൾട്ടേജ് പ്രയോഗിക്കുമ്പോൾ ആണ് ഇപ്പോൾ നമ്മൾ ഒരു ലോഡിന്റെ അപ്പാരന്റ് പവർ ഉം പവർ ഫാക്ടർ ഉം ലോഡിൽ നിന്നുള്ള ഘടകത്തിന്റെ മൂല്യവും നിർണ്ണയിക്കണം ഇപ്പോൾ അപ്പാരന്റ് പവർ ആയിരിക്കും VA ഇപ്പോൾ പവർ ഫാക്ടർ നിങ്ങൾക്ക് ഈ 2 എക്സ്പ്രഷനുകളുടെ സഹായത്തോടെ കണക്കാക്കാം കാരണം പവർ ഫാക്ടർ അല്ലാതെ മറ്റൊന്നുമല്ല ഇവിടെ ആണ് അതിനാൽ നിങ്ങൾക്ക് ആയി പവർ ഫാക്ടർ ലഭിക്കും കറന്റ് വോൾടേജ് ഇനെ ലീഡ് ചെയ്യുന്നതിനാൽ ഇവിടെ പവർ ഫാക്ടർ ലീഡ് ചെയ്യുന്നു ഇവിടെ ഫേസ് ആംഗിൾ പോസിറ്റീവ് ആണ് വോൾടേജ് നു ഫേസ് ആംഗിൾ നെഗറ്റീവ് ആയതിനാൽ വോൾട്ടേജുമായി ബന്ധപ്പെട്ട് കറന്റ് ലീഡ് ചെയ്യുന്നുവെന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ കാണാൻ കഴിയും അതിനാൽ ഇതിനർത്ഥം സർക്യൂട്ട് കപ്പാസിറ്റീവ് ആണെന്നാണ് അതിനാൽ ഈ ഫോർമുല ഉപയോഗിച്ച് ലോഡ് ഇംപെഡൻസ് കണക്കാക്കാം Ω ഇതിൽ നിന്ന് നിങ്ങൾ ആർ പ്ലസ് ജെഎക്സ്RjX എന്ന പദവുമായി ബന്ധിപ്പിക്കുവാണെങ്കിൽ ഇസഡ് 25 98 ഓം ഒരു റെസിസ്റ്റീവ് ലോഡായും കപ്പാസിറ്ററുമായി സീരീസ് ആണെന്നും അതിന്റെ ഇംപെഡൻസ് എക്സ് സി 15 ന് തുല്യമാണ് അതിനാൽ ഈ എക്സ്പ്രഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് കപ്പാസിറ്റൻസിന്റെ മൂല്യം 212 2 മൈക്രോഫറാഡായി കണ്ടെത്താനാകും ഇപ്പോൾ നമുക്ക് കോംപ്ലക്സ് പവർ എന്ന മറ്റൊരു പദത്തിലേക്ക് വരാം എന്നിങ്ങനെയുള്ള ഫേസ്സർ കണക്കിലെടുക്കുമ്പോൾ V I എന്നിവയെ ഫേസ്സറുകളുടെ രൂപത്തിൽ പ്രതിനിധീകരിക്കുന്നു കാരണം ഈ ഫേസ്സറുകൾ വോൾട്ടേജിനും വൈദ്യുതധാരയ്ക്കും വേണ്ടിയുള്ളതാണ് ഇത് സിനുസോയിഡായി വ്യത്യാസപ്പെടുന്നു അതിനാൽ കോംപ്ലക്സ് പവർ മറ്റൊന്നുമല്ല എസി ലോഡ് ആഗിരണം ചെയ്യുന്ന പവർ ആണ് ഇത് വോൾട്ടേജിന്റെയും കറന്റ് ഇന്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ഇന്റെയും ഗുണന ഫലമാണ് കോംപ്ലക്സ് പവർ എസ് എങ്ങനെ എഴുതാം

അതിനാൽ ഈ പ്രത്യേക കോംപ്ലക്സ് പവർ കോഞ്ചുഗേറ്റ് രൂപത്തിൽ എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ചോദിക്കാം കാരണം നിങ്ങൾ കറന്റ് ഇന്റെ മൂല്യം കറന്റ് കോൺജഗേറ്റായി ഇടുന്നു വോൾടേജ് അല്ല കോഞ്ചുഗേറ്റായി ഇടുന്നത് കാരണം നിങ്ങൾ കണക്കാക്കിയ ശരാശരി ശക്തിയുമായി നിങ്ങൾ താരതമ്യം ചെയ്താൽ എന്ന പദം ലഭിച്ചു അതിനാൽ ത്രികോണമിതി സമവാക്യങ്ങളുടെ അടിസ്ഥാന സഹായത്തോടെ നമ്മൾ കണക്കാക്കിയ സിനുസോയ്ഡൽ രൂപത്തിൽ നമ്മൾ എടുത്ത വോൾട്ടേജ് സിനുസോയ്ഡൽ രൂപത്തിൽ നമ്മൾ എടുത്ത കറന്റ് വിശകലനം ചെയ്യുമ്പോൾ ആ ശരാശരി ശക്തിയുടെ പ്രത്യേക മൂല്യം ½ എന്ന് ലഭിച്ചു ആ പ്രത്യേക അളവ് ഇതിനകം തന്നെ ഉള്ളതിനാൽ നമുക്ക് അതിനാൽ V ഒരു കോഞ്ചുഗേറ്റ് ആയി ഇടുകയാണെങ്കിൽ മറിച്ച് I ഒരു കോഞ്ചുഗേറ്റ് ആയി ഇടുന്നില്ല എങ്കിൽ ഈ പദം എന്നായി ലഭിക്കും ഇത് ശരാശരി പവർ കേസിൽ മുൻ കേസിൽ നിന്ന് ലഭിച്ചതിന് വിരുദ്ധമായിരിക്കും അതിനാൽ നമ്മൾ വി ഐ കോഞ്ചുഗേറ്റ് ഉപയോഗിക്കാതെ വി കോൺജുഗേറ്റ് I ഉപയോഗിക്കുന്നു അതിനാൽ ഈ പ്രത്യേക പദപ്രയോഗത്തിൽ കോഞ്ചുഗേറ്റ്ന് പ്രത്യക്ഷമായ വ്യാഖ്യാനമോ പ്രത്യക്ഷമായ പ്രാധാന്യമോ ഇല്ല ഇത് ഒരു ഗണിതശാസ്ത്ര നിരൂപണം മാത്രമാണ് അതിനാൽ നമുക്ക് സമവാക്യങ്ങളെ ഫലപ്രദമായി പ്രതിനിധീകരിക്കാൻ കഴിയും കോംപ്ലക്സ് പവർ S ന്റെ അളവ് അപ്പാരന്റ് പവർ ആണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ഈ പദം നിങ്ങൾ കണ്ടാൽ Vrms Irms ഇതാണ് അപ്പാരന്റ പവർ അതിനാൽ നിങ്ങൾ ഒരു ചതുരാകൃതിയിൽ എഴുതുകയാണെങ്കിൽ ഇത് നമ്മൾ ഇതിനകം ഉരുത്തിരിഞ്ഞ ഒന്നാണ് അതിനെ ശരാശരി പവർ അല്ലെങ്കിൽ റിയൽ പവർ എന്ന് വിളിക്കുന്നു ഇത് കോംപ്ലക്സ് പവർ കണ്ടെത്തിയതിൽ നിന്നും നമുക്ക് ലഭിച്ച ഇമാജിനറി പദമാണ് അതിനാൽ അപ്പാരന്റ് പവറിന്റെ കാര്യത്തിൽ നാം കണ്ടതുപോലെ കോംപ്ലക്സ് പവർ വോൾട്ട് ആംപിയറിൽ അളക്കുന്നു വാട്ട് റിയൽ പവറിനെ തിരിച്ചറിയാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന അളവാണ് വോൾട്ട് ആമ്പിയറിന്റെ അടിസ്ഥാനത്തിൽ കോംപ്ലക്സ് പവർ നമ്മൾ അളക്കുന്നു അതിനാൽ എക്സ്പ്രഷനുകൾ വീണ്ടും നോക്കാം റിയൽ പവർ ആയിരിക്കും jQ എന്ന് എഴുതപ്പെടും ഇവിടെ യഥാർത്ഥ പദം P ആണ് ഇത് ലോഡിലേക്ക് വിതരണം ചെയ്യുന്ന ശരാശരി ശക്തിയെ പ്രതിനിധീകരിക്കുന്നു ഇത് സിസ്റ്റത്തിലെ ഉപയോഗപ്രദമായ ഊർജ്ജമാണ് അതേസമയം സാങ്കൽപ്പിക പദം Q റിയാക്ടീവ് പവർ എന്നറിയപ്പെടുന്നു കൂടാതെ ഉറവിടവും ലോഡിന്റെ റിയാക്ടീവ് ഭാഗവും തമ്മിലുള്ള ഊർജ്ജ കൈമാറ്റത്തെ പ്രതിനിധീകരിക്കുന്നു നിങ്ങൾ സമവാക്യം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് റെസിസ്റ്റീവ് ലോഡ് മാത്രമുള്ളപ്പോൾ നിങ്ങളുടെ റിയാക്ടീവ് പവർ മൊത്തത്തിലുള്ള പവർ കണക്കുകൂട്ടലിന് കാരണമാകില്ല കാരണം ഈ സാഹചര്യത്തിൽ സൈൻ 0 എന്നിവ 0 ആയിരിക്കും അതിനാൽ അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് പൂർണ്ണമായും റെസിസ്റ്റീവ് ലോഡിനുള്ള പദമായ Vrms Irms മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുപോലെ പൂർണ്ണമായും കപ്പാസിറ്റീവ് ഇൻഡക്റ്റീവ് എന്നിവയ്ക്കായി നിങ്ങൾക്ക് ഈ പദം മാത്രമേ ഉണ്ടാകൂ അത് റിയാക്ടീവ് പവർ ആണ് അതിനാൽ സർക്യൂട്ടിൽ നമുക്ക് കപ്പാസിറ്റീവ് അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് ലോഡ് ലഭ്യമാകുമ്പോൾ മാത്രമേ റിയാക്ടീവ് പവർ ദൃശ്യമാകൂ എന്നാണ് ഇതിനർത്ഥം വാട്ടുകളിൽ അളക്കുന്ന റിയൽ പവർ പി യിൽ നിന്ന് വേർതിരിച്ചറിയാൻ ഇപ്പോൾ റിയാക്ടീവ് വോൾട്ടാംപിയറിൽ Q അളക്കുന്നു ഇപ്പോൾ സ്റ്റാൻഡേർഡ് പ്രാക്ടീസിൽ എസ് പി ക്യൂ എന്നിവ പവർ ഫാക്ടർ ആംഗിളിനൊപ്പം പവർ ത്രികോണം ഉപയോഗിച്ച് പ്രതിനിധീകരിക്കുന്നു പവർ ത്രികോണത്തെ എങ്ങനെ പ്രതിനിധീകരിക്കും പവർ ത്രികോണം മറ്റൊന്നുമല്ല പി ക്യു എസ് എന്നിവ തമ്മിലുള്ള ബന്ധവും പി എസ് തമ്മിലുള്ള കോണും അത് പവർ ഫാക്ടർ കോണല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ ഈ പവർ ത്രികോണം വളരെ പ്രധാനമാണ് മിക്കപ്പോഴും നിങ്ങളോട് കാണിക്കാൻ ആവശ്യപ്പെടും പവർ ത്രികോണം എന്താണ് അതിനാൽ പവർ ത്രികോണം റിയൽ പവർ റിയാക്ടീവ് പവർ കോംപ്ലക്സ് പവർ എന്നിവയുമായി പരസ്പരം ബന്ധിപ്പിക്കുന്ന പ്രത്യേക ത്രികോണമല്ലാതെ മറ്റൊന്നുമല്ലെന്ന് നിങ്ങൾ ഓർക്കണം ഇതോടു കൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ് എവിടെ അവസാനിപ്പിക്കുക ആണ് അടുത്ത സെഷനിൽ മെഷ് പോലുള്ള മറ്റ് ചില വശങ്ങളെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുകയും ചെയ്യും എന്താണ് നോഡ് വിവിധ ഇലക്ട്രിക്കൽ സർക്യൂട്ട് പാരാമീറ്ററുകൾ കണക്കാക്കുന്നതിനുള്ള മാർഗ്ഗങ്ങളെ കുറിച്ചും പഠിക്കും നന്ദി